ഒരു ഡയോഡ് പോലെയുള്ള ടു ടെർമിനൽ നോൺ ലീനിയർ മൂലകമായ ഒരു പോർട്ട് നോൺ ലീനിയർ മൂലകങ്ങൾ അടങ്ങിയ സർക്യൂട്ടുകളുടെ വിശകലനം നമുക്ക് ഇപ്പോൾ പരിചിതമാണ് നമ്മൾ ഒരു ആംപ്ലിഫയർ പോലെയുള്ള എന്തെങ്കിലും നിർമ്മിക്കാൻ ആഗ്രഹിക്കുമ്പോൾ രണ്ട് പോർട്ടുകൾ ഉണ്ടായിരിക്കുന്നതാണ് നല്ലത് ഇൻപുട്ട് നൽകുന്നതിന് ഒരു പോർട്ട് ഔട്ട്പുട്ട് എടുക്കാൻ മറ്റൊന്ന് അതിനാൽ ഞങ്ങൾ ടു പോർട്ട് നോൺ ലീനിയാരിറ്റികൾ നോക്കും അടിസ്ഥാന തത്വം സിംഗിൾ പോർട്ട് നോൺ ലീനിയറിറ്റികൾക്കായി ഞങ്ങൾ ചെയ്തതിന് സമാനമാണ് ഒരു ചെറിയ വിപുലീകരണം മാത്രം അത് കൂടുതൽ പോർട്സിസിലേക്ക് വ്യാപിപ്പിക്കാം ലാളിത്യത്തിനായി ഞാൻ മൂന്ന് ടെർമിനൽ ടു പോർട്ട് പരിഗണിക്കും അതിൽ രണ്ട് വശങ്ങളിലും പൊതുവായ ഒരു ടെർമിനൽ ഉണ്ട് ഇത് പോർട്ട് ഒന്ന് അത് പോർട്ട് രണ്ട് അതിനാൽ ഇത് ഇതുപോലെ സൂചിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഈ പൊതുവായത് എന്നതിനർത്ഥം ഇത് രണ്ട് പക്ഷത്തിനും പൊതുവായതാണ് എന്നാണ് ഇപ്പോൾ പതിവുപോലെ നിഷ്ക്രിയ ചിഹ്ന കൺവെൻഷൻ അനുസരിച്ച് ഞങ്ങൾ വോൾട്ടേജുകളും കറന്റും നിർവചിക്കുന്നു കാരണം ഇത് രണ്ട് പോർട്ട് ആണ് ഞങ്ങൾക്ക് രണ്ട് വോൾട്ടേജുകൾ V1 V2 എന്നിവയുണ്ട് ഈ ദിശയിലുള്ള വൈദ്യുതധാരകൾ I1 I2 എന്നിവയും താരതമ്യത്തിനായി ഞാൻ ഇവിടെ സിംഗിൾ പോർട്ട് അല്ലെങ്കിൽ രണ്ട് ടെർമിനൽ നോൺ ലീനിയാരിറ്റി കാണിക്കും ഞങ്ങൾക്ക് ഒരൊറ്റ വോൾട്ടേജും കറന്റും ഉണ്ട് ഇപ്പോൾ ഒരൊറ്റ പോർട്ടിന്റെയോ രണ്ട് ടെർമിനൽ നോൺ ലീനിയാരിറ്റിയുടെയോ കാര്യത്തിൽ വോൾട്ടേജിന്റെ പ്രവർത്തനമായി നമുക്ക് I നിർവചിക്കാം തീർച്ചയായും വോൾട്ടേജ് V എന്നത് കറന്റിന്റെ ഒരു ഫംഗ്ഷനായി നിർവചിക്കുന്നതിന് മറ്റൊരു വഴിയും നമുക്ക് ചെയ്യാൻ കഴിയും എന്നാൽ ഞങ്ങൾ ഈ പ്രാതിനിധ്യം തിരഞ്ഞെടുക്കുന്നു ഈ സാഹചര്യത്തിൽ I1 എന്നത് V1 V2 എന്നിവയുടെ ചില ഫംഗ്ഷനാണെന്ന് ഞങ്ങൾ പറയും ഇതിൽ പറയുന്നതെല്ലാം ഇതിലേക്ക് പോകുന്ന കറന്റ് V1 V2 എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു അത്രമാത്രം അതുപോലെ I2 എന്നത് പൊതുവെ മറ്റൊരു ഫംഗ്ഷനാണ് ഇത് V1 V2 എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മുഴുവൻ ഘടകത്തെ ചുറ്റിപ്പറ്റിയുള്ള കിർച്ചോഫ്ന്റെ കറന്റ് നിയമം അനുസരിച്ച് ഇതിൽ നിന്ന് വരുന്ന കറന്റ് I1 I2 ന് തുല്യമായിരിക്കണം എന്ന് നമുക്ക് അറിയാം വീണ്ടും നിരവധി മറ്റ് സാധ്യതകൾ നിലവിലുണ്ട് നമുക്ക് വോൾട്ടേജുകളെ വൈദ്യുതധാരകളുടെ പ്രവർത്തനങ്ങളായോ ഈ വോൾട്ടേജിനെ ഈ കറന്റിന്റെയും ആ വോൾട്ടേജിന്റെയും പ്രവർത്തനമായി നിർവചിക്കാം നിങ്ങൾക്ക് ലീനിയർ ടു പോർട്ടും അവ വിവരിക്കാൻ ഉപയോഗിക്കാവുന്ന എല്ലാ ടു പോർട്ട് പാരാമീറ്ററുകളും പരിചിതമാണ് നോൺ ലീനിയർ ടു പോർട്ടുകൾക്കും ഒരേ കാര്യം ചെയ്യാൻ കഴിയും ബന്ധം ഇപ്പോൾ രേഖീയമല്ലാത്തതായിരിക്കും അതിനാൽ നിങ്ങൾ നേരത്തെ കണ്ട ആശ്രിതവും സ്വതന്ത്രവുമായ വേരിയബിളുകളുടെ എല്ലാ ചോയിസുകളും ഇവിടെ ഉപയോഗിക്കാവുന്നതാണ് വോൾട്ടേജുകളുടെ ഫംഗ്ഷനുകളായി ഞങ്ങൾ വൈദ്യുതധാരകൾ ഉപയോഗിക്കും കാരണം ഇപ്പോൾ നമുക്കുള്ള ഉപകരണങ്ങൾ ഇതാണ് ഏറ്റവും പ്രസക്തമായ പ്രാതിനിധ്യം അപ്പോൾ അതാണ് ടു പോർട്ട് നോൺ ലീനിയർ എലമെന്റിന്റെ ടു പോർട്ട് നോൺ ലീനിയാരിറ്റിയുടെ പ്രതിനിധാനം ഇപ്പോൾ സിംഗിൾ പോർട്ട് നോൺ ലീനിയാരിറ്റിക്ക് നമുക്ക് ഈ പദപ്രയോഗം നൽകാം നമുക്ക് ഒരു ഗ്രാഫ് I വേഴ്സസ് V എന്നിവ വരയ്ക്കാം കൂടാതെ ഡയോഡിന്റെ പ്രത്യേക ഉദാഹരണത്തിനായി അത് അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നിരുന്നാലും നമുക്ക് ആവശ്യമുള്ളതെന്തും നമുക്ക് ലഭിക്കും രണ്ട് പോർട്ടുകൾക്കും സമാനമായ ഗ്രാഫിക്കൽ പ്രാതിനിധ്യം ഉണ്ടാക്കാം ഇപ്പോൾ ഒന്നാമതായി നമുക്ക് ഇവിടെ രണ്ട് അളവുകൾ ഉണ്ട് I1 I2 രണ്ടിനും ഗ്രാഫ് വരയ്ക്കണം ഇപ്പോൾ I1 എന്നത് V1 V2എന്നീ രണ്ട് വേരിയബിളുകളുടെ ഫംഗ്ഷനാണ് കൂടാതെ നിങ്ങൾക്ക് ഒരു ത്രിമാന ഗ്രാഫ് സങ്കൽപ്പിക്കാൻ കഴിയും അടിസ്ഥാനപരമായി ഒരു 3D പ്ലോട്ട് എന്നാൽ അത്തരമൊരു പ്ലോട്ട് ഒരു വ്യാഖ്യാനം വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ സാധാരണയായി നിങ്ങൾ ചെയ്യേണ്ടത് നിരവധി ദ്വിമാന ഗ്രാഫുകൾ വരയ്ക്കുക എന്നതാണ് നിങ്ങൾക്ക് ഇത് പരിചിതമായിരിക്കണം ഈ സാഹചര്യത്തിൽ V2 നെ പാരാമീറ്റർ എന്ന് വിളിക്കുന്നു അത് എന്തും ആകാം ഞാൻ ചില അനിയന്ത്രിതമായ ഉദാഹരണങ്ങൾ കാണിക്കും V2 ന്റെ ഒരു പ്രത്യേക മൂല്യത്തിന് I1 വേഴ്സസ് V1 അത്തരത്തിലുള്ള ഒന്നായിരിക്കാം V2 ന്റെ മറ്റൊരു മൂല്യത്തിന് അത് അങ്ങനെയും മറ്റും ആകാം അതിനാൽ അടിസ്ഥാനപരമായി പ്ലോട്ട് I1 വേഴ്സസ് V1 V2 സ്ഥിരമായി നിലനിർത്തുക അങ്ങനെയാണ് ദ്വിമാന പ്ലോട്ട് ഒരു വേരിയബിളും മറ്റൊരു വേരിയബിളും തുടർന്ന് V2 വ്യത്യാസപ്പെടുത്തി പ്ലോട്ട് ആവർത്തിക്കുക അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് കർവുകളുടെ ഒരു കുടുംബം ലഭിക്കും കൃത്യം ഒരേ കാര്യം ചെയ്യാൻ കഴിയും സാധ്യമായ നാല് പ്ലോട്ടുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും I1 വേഴ്സസ് V1 സ്ഥിരമായിരിക്കുന്ന V2 I1 വേഴ്സസ് V2 കൂടെ V1 സ്ഥിരമാണ് അതുപോലെ തന്നെ I2 വേഴ്സസ് V1 ഉള്ള V2 സ്ഥിരവും I2 വേഴ്സസ് V2 ഉം V1 സ്ഥിരമാണ് അതിനാൽ നിങ്ങൾക്ക് I1 വേഴ്സസ് V1 I1 വേഴ്സസ് V2 I2 വേഴ്സസ് V1 I2 വേഴ്സസ് V2എന്നിവ ഉണ്ടാകും അവ എന്തും ആകാം ഞാൻ ചില പ്രതിനിധി ഉദാഹരണങ്ങൾ കാണിക്കും അതിനാൽ ഈ പ്ലോട്ടിൽ ഉദാഹരണത്തിന് ഈ പ്ലോട്ട് V2 ആണ് പരാമീറ്റർ അതിനാൽ ഈ ഓരോ കർവുകൾക്കും എന്താണ് അർത്ഥമാക്കുന്നത് V2 ആണ് സ്ഥിരാങ്കം വ്യത്യസ്ത കർവുകൾക്കായി ഞങ്ങൾ V2 ന്റെ വ്യത്യസ്ത സ്ഥിരമായ മൂല്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു കൂടാതെ ഇതിന് സമാനമായി നമുക്ക് V1 ഒരു പാരാമീറ്ററായി ഉണ്ടായിരിക്കും അത് എന്തും ആകാം അത് അത്തരത്തിലുള്ള ഒന്നായിരിക്കാം അതുപോലെ I2 വേഴ്സസ് V1 അത്തരത്തിലുള്ള ഒന്നായിരിക്കാം കൂടാതെ I2 വേഴ്സസ് V2 അത്തരത്തിലുള്ള ഒന്നായിരിക്കാം അതിനാൽ ഈ രണ്ട് പ്ലോട്ടുകളിലെ പാരാമീറ്ററാണ് V2 ആ രണ്ട് പ്ലോട്ടുകളിലെ പാരാമീറ്ററാണ് V1 അതിനാൽ നമുക്ക് ബന്ധങ്ങൾ ഗ്രാഫിക്കായി കാണിക്കുന്നത് ഇങ്ങനെയാണ് ഒരു നോൺലീനിയർ ടു പോർട്ടിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ടു പോർട്ടിന്റെ നിലവിലെ വോൾട്ടേജ് ബന്ധം ഒരു ലീനിയർ ടു പോർട്ടിനും നമുക്കത് ചെയ്യാം ലീനിയർ ടു പോർട്ടിന്റെ കാര്യത്തിൽ ഈ കർവുകൾ നേർരേഖകളായിരിക്കും ഇത് ഒരു നേർരേഖയായ ഒരു റെസിസ്റ്ററിന്റെ I V സ്വഭാവം പോലെയാണ് ടു പോർട്ടുകളുടെ I V ബന്ധങ്ങളും നാല് പ്ലോട്ടുകൾ ഉൾക്കൊള്ളുന്നതാണ് എന്നാൽ എല്ലാ പ്ലോട്ടുകളും നേർരേഖകൾ ഉൾക്കൊള്ളുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സർക്യൂട്ടിൽ ഒരു നോൺലീനിയർ ടു പോർട്ട് ഉള്ളപ്പോൾ നിങ്ങൾ സർക്യൂട്ട് സമവാക്യങ്ങൾ എഴുതണം രണ്ട് പോർട്ടുകളുടെയും നോൺലീനിയർ സ്വഭാവം കാരണം നിങ്ങൾക്ക് നോൺലീനിയർ സമവാക്യങ്ങൾ ഉണ്ടാകും തുടർന്ന് നിങ്ങൾ രേഖീയമല്ലാത്ത സമവാക്യം സംഖ്യാപരമായി പരിഹരിക്കേണ്ടതുണ്ട് ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് പോയിന്റ് പരിഹരിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് ഇപ്പോൾ ഞങ്ങൾ പ്രത്യേക രേഖീയതയൊന്നും പരിഗണിക്കുന്നില്ല എന്നാൽ f1 f2 രൂപത്തിലുള്ള പൊതുവായ ഒന്ന് എന്നാൽ f1 f2 എന്നിവയുടെ നിർവചനം നൽകിയിട്ടുള്ള നോൺ ലീനിയാരിറ്റിയുടെ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് രേഖീയമല്ലാത്ത സമവാക്യം പരിഹരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങൾ ആ വശം ഇനി ഇവിടെ കൈകാര്യം ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് പോയിന്റ് പരിഹരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ അനുമാനിക്കും നിങ്ങൾക്ക് ഒരു നോൺലീനിയർ ടു പോർട്ട് ഉള്ളപ്പോൾ ഇൻക്രിമെന്റൽ വിശകലനത്തിലാണ് ഞങ്ങൾക്ക് കൂടുതൽ താൽപ്പര്യമുള്ളത് കാരണം ഒരു സർക്യൂട്ടിലെ വോൾട്ടേജുകളോ വൈദ്യുതധാരകളോ വ്യത്യാസപ്പെടുത്തുമ്പോൾ നമ്മൾ സിഗ്നലിൽ വ്യത്യാസം വരുത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾ അവയെ പ്രവർത്തന പോയിന്റിന് മുകളിലുള്ള വർദ്ധനവായി കണക്കാക്കുന്നു നോൺലീനിയർ സർക്യൂട്ടുകളുടെ ഇൻക്രിമെന്റൽ വിശകലനം നടത്താൻ നമുക്ക് കഴിയണം കൂടാതെ രേഖീയമല്ലാത്ത ഉപകരണത്തിന് ഊർജ്ജ നേട്ടമുണ്ടാകുമെന്നത് വർദ്ധിക്കുന്ന അർത്ഥത്തിൽ മാത്രമാണ്